പ്രൊഫസർബാലCurio Curioഅതെ sir പ്രൊഫസർബാല നിങ്ങൾ എന്നോടൊപ്പം ഒരു ട്രെയിനിയായി ചേർന്ന് ഒരു മാസമായി Curioഅതെ sir പ്രൊഫസർബാലOK പഠിക്കാൻ ഏറ്റവും നല്ല വഴി ഒരുകാര്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആ കസ്റ്റമറുടെ ജോലി ചെയ്യുക കസ്റ്റമർഎന്ന ആളെ പറ്റി ആലോചിക്കുക Curioഞാൻ കസ്റ്റമർ ആണ് ഞാനൊരു പേരുകേട്ടകസ്റ്റമർ ആണ് പ്രൊഫസർബാല Ok ഇനി ആ കസ്റ്റമറുടെപ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുക എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ Curio Ok ഞാൻ കസ്റ്റമർ ആണ് എൻറെ കയ്യിൽ ഒരു നല്ല മൊബൈൽ ഫോൺ ഉണ്ട് ഒരു പേരുകേട്ട മൊബൈൽ ഫോൺഉണ്ട് ഈ മൊബൈൽ ഫോൺവളരെ മെല്ലെയാണ് വർക്ക് ചെയ്യുന്നത് പ്രൊഫസർബാല ഒരു സൊലൂഷൻപ്പറ്റി ചിന്തിക്കു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സൊല്യൂഷൻ Curioമൊബൈൽ ഫോൺ വളരെ മെല്ലെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു ഒരു പ്രോസസർ ഉപയോഗിച്ചാൽ അത് കൂടുതൽ വേഗതയിൽ വർക്ക് ചെയ്യും പ്രൊഫസർബാലതീർച്ചയായും നിങ്ങൾ ഇത് ഒരു അവതരണം ആയി കസ്റ്റമറുടെ മുന്നിൽ അവതരിപ്പിക്കുക Curioഅതെ തീർച്ചയായും പ്രൊഫസർബാല ok Curio Yes പ്രൊഫസർബാല ഒരു അവതരണംഅവതരിപ്പിക്കൂ ഒരാഴ്ച സമയം തരാം Curioസാർ താങ്ക്യൂ പ്രൊഫസർബാലOk bye ഇത് കസ്റ്റമർ പ്രോബ്ലം ആണ് കസ്റ്റമറുടെ മൊബൈൽ ഫോൺ വളരെ മേലെ ആണ് വർക്ക് ചെയ്യുന്നത് Slide 2 ഇതാണ് ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ അല്ലെങ്കിൽ വേഗതകൂടിയ പ്രോസസർ ഉപയോഗിക്കുക Slide 3 അങ്ങനെ വരുമ്പോൾ കൂടുതൽ ലാഭം കിട്ടും മിസ്റ്റർ കസ്റ്റമർ Slide1നിങ്ങളുടെ problem കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ് ആയിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ പേരുകേട്ട മൊബൈൽ ഫോൺ ആണ്ഉപയോഗിക്കുന്നത് വളരെ മേലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് Slide 2 അതിനുള്ള പരിഹാരം ആയിരുന്നു കൂടുതൽ വേഗത കൂടിയ ഒരു Processor ഉപയോഗിക്കുക അങ്ങനെവരുമ്പോൾ മൊബൈൽ ഫോൺസ്പീഡ് കൂടും മൂന്ന് ലാഭം കാണിക്കുന്ന Slide ആയിരുന്നു കസ്റ്റമർ എന്താണിത് നിങ്ങൾ ആരെയെങ്കിലും അഭിമുഖം നടത്തിയിരുന്നുവോ സ്ലോ എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രോസസർ മാറ്റുവാനുള്ള ചെലവ് എന്ത് വരും ചിന്തിച്ചിട്ടുണ്ടോ ഇ പ്രൊജക്റ്റ് ൻറെ കാലദൈർഘ്യം എത്ര മാസമാണ് ആരൊക്കെയാണ് ടീമിലുള്ളത് എന്താണ് നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവം എന്തെങ്കിലും home വർക്ക് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റ് സർവ്വേനടത്തിയിട്ടുണ്ടോ Curioഇല്ല Sirക്ഷമിക്കണം പ്രൊഫസർ ബാലആദ്യം ടെസ്റ്റ് ചെയ്യുക പാഠം പിന്നീട് Presentationവളരെ മോശം ഒന്നുമായിരുന്നില്ല എൻറെ ആദ്യത്തെ Presentationവലിയ ദുരന്തം ആയിരുന്നു ശരിയായ ഭാഷ പോലും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല നിങ്ങൾ ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കുന്നു Curio മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഞാൻ എൻറെ സാഹചര്യം സങ്കൽപ്പിച്ചു നോക്കി ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ എഴുതി വെച്ചു ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നുപോയി പ്രൊഫസർ ബാല നിങ്ങൾ ചെയ്ത രീതി തെറ്റൊന്നുമല്ല ഇതിനേക്കാൾ നല്ലൊരു രീതി ഉണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഓൺലൈനിൽ NPTEL Course പഠിക്കാത്തത് ഡിസൈൻ തിങ്കിംഗ് കോഴ്സ് ഉണ്ട് Curio Okay പ്രൊഫസർ ബാല ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്പ്രയോജനപ്പെടുമെന്ന് Curioതീർച്ചയായും പ്രൊഫസർബാലOk